ഈ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്ന ഇത്തരത്തിലുള്ള അവിഭാജ്യതയെയാണ് അനുചിതമായ ഇന്റഗ്രൽ എന്ന് വിളിക്കുന്നത് അതിനാൽ ഇതാണ് ഏറ്റവും മികച്ച ഉദാഹരണം എനിക്ക് മൈനസ് a മുതൽ b വരെയുള്ള ചില ഫംഗ്ഷനുകൾ വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൂടാതെ അനന്തതയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് ഉള്ളതിനാൽ ഇതിനെ അനുചിതമായ ഇന്റഗ്രൽ എന്ന് വിളിക്കുന്നു ഇത് നിർവചനം മാത്രമാണ് അതിനാൽ x 1x എന്നീ log x ഉം 1x ഉം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ നിങ്ങൾക്ക് മുമ്പ് കാണിച്ചത് രണ്ടും ഒരുതരം അനുചിതമായ ഇന്റഗ്രലുകൾ ആണെന്ന് ഞാൻ എങ്ങനെ അർത്ഥമാക്കുന്നു വിഷമിക്കേണ്ട ഇവിടെയുള്ള പരിമിതികളെക്കുറിച്ച് അധികം മുമ്പ് ഞാൻ ε ൽ നിന്ന് a ലേക്ക് പോകുകയായിരുന്നു പക്ഷേ ഞാനും പോയിരിക്കാം മുമ്പത്തെ ഉദാഹരണം ഇതുപോലെ എഴുതാമായിരുന്നു എന്താണ് സംഭവിച്ചത് ഞാൻ അതിനെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കും അതിനാൽ ഈ അവിഭാജ്യത സംയോജിതമാണോ അല്ലയോ എന്നതിന് ഉത്തരം നൽകുന്നതിന് ഇത് വീണ്ടും കാൽക്കുലസിൽ നിന്നുള്ള ഒരു പുനരവലോകനമാണ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഇത് ആയി വിഭജിക്കണം കൂടാതെ എനിക്ക് നഷ്ടമായ ഒരു പദമുണ്ടോ അതിനാൽ ഇല്ല അതെ അതിനാൽ ഞാൻ ഇത് ഈ രീതിയിൽ വിഭജിക്കുന്നു η ε എന്നിവ സ്വതന്ത്രമായി 0 നെ സമീപിക്കുകയും പരിധി നിലനിൽക്കുകയും ചെയ്താൽ അവിഭാജ്യ സംയോജനമാണെന്ന് നമ്മൾ പറയുന്നു അതിനാൽ ഇത് കുറച്ചുകൂടി സൂക്ഷ്മമായി മനസ്സിലാക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ഒരു കൌണ്ടർ എടുക്കും നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്യാൻ അനുവദിക്കും ചെയ്യാം നമുക്ക് η ഉം ε ഉം ഒരേ പോലെ ആക്കാം ആദ്യ ടേം എന്ത് നൽകും എനിക്ക് x y പകരംവയ്ക്കാൻ കഴിയും അതിനാൽ log എടുക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല അതായത് ഇത് ഒരു നെഗറ്റീവ് നമ്പറിന്റെ log ആകില്ല dx ശരി എനിക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് ഇവിടെ എന്ത് ലഭിക്കും അതിനാൽ log എടുക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല അതായത് ഇത് ഒരു നെഗറ്റീവ് നമ്പറിന്റെ log ആകില്ല dx − dy എനിക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് ഇവിടെ എന്ത് ലഭിക്കും logε − log log − logε logba logba അതിനാൽ ഈ അവിഭാജ്യഘടകം നിലവിലുണ്ടെന്ന് തോന്നുന്നു പക്ഷേ എന്താണ് സംഭവിച്ചത് ഞാൻ ആദ്യം ചെയ്തത് ഞാൻ η ε ഉണ്ടാക്കി എന്നതാണ് ഞാൻ η ε ആക്കുകയാണെങ്കിൽ രണ്ടും ഒരേ നിരക്കിൽ 0 ലേക്ക് പോകുന്നു കാരണം അവ ഒരേ വേരിയബിളുകളാണ് ഇപ്പോൾ ഞാൻ ഒരു ചെറിയ തന്ത്രം കളിച്ചുവെന്ന് കരുതുക ഇനിപ്പറയുന്നത് ശരിയാക്കാം എന്ന് ഞാൻ പറഞ്ഞു പകരം ഇത് ആയി ചെയ്യട്ടെ അപ്പോൾ ഞാൻ എന്താണ് ചെയ്തത് ഞാൻ വിളിച്ചു ഞാൻ തിരികെ പോയി η 2ε ഇപ്പോൾ ε 0 ലേക്ക് പ്രവണത കാണിക്കുന്നതിനാൽ η 0 വേഗത്തിലോ മന്ദഗതിയിലോ അടുക്കുന്നു 2ε ആയതിനാൽ η വേഗത്തിൽ അടുക്കുന്നു അതിനാൽ ε ചില നിരക്കിൽ 0 ലേക്ക് പോകുന്നു 2η നിരക്കിന്റെ ഇരട്ടി ഓകെ പോകുന്നു ഇപ്പോൾ ഞാൻ ഈ സമഗ്രത വിലയിരുത്തുമ്പോൾ എനിക്ക് എന്ത് ലഭിക്കും അതിനാൽ ഞാൻ log2ε − log log − logε logba log അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് എനിക്ക് logba log ലഭിച്ചു അതുകൊണ്ട് എന്തു സംഭവിച്ചു അതിനാൽ ഇപ്പോൾ ഇതിന്റെ അർത്ഥം നിങ്ങൾ വിലമതിക്കുന്നു അവ രണ്ടും സ്വതന്ത്രമായി 0 നെ സമീപിക്കുകയും പരിധി നിലനിൽക്കുകയും ചെയ്താൽ അവിഭാജ്യ സംയോജനമാണ് അതിനാൽ ഈ 2 വ്യത്യസ്ത നിരക്കിലാണ് വരുന്നതെങ്കിൽ ഞാൻ 3ε ഉണ്ടാക്കിയാൽ എനിക്ക് ഒരു log 3 ലഭിക്കും അതിനാൽ η ഉം ε ഉം സ്വതന്ത്രമായി 0 സമീപിക്കുന്നതിനാൽ ഈ പരിധി തന്നെ നിലവിലില്ല അതിനാൽ മറ്റൊരു കേസ് log നായി നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാവുന്ന ഒരു വ്യത്യസ്ത ഇന്റഗ്രലിന്റെ നിർവചനമാണിത് ഇത് ഒത്തുചേരലാണെന്നും പ്രശ്നമൊന്നുമില്ലെന്നും അതിനാൽ ശരിയാണ് പക്ഷേ 1x ന് ഈ പ്രശ്നമുണ്ട് അതിനാൽ ഇത് ഒരു വ്യത്യസ്ത അവിഭാജ്യഘടകമാണ് എന്നാൽ നിലവിലുണ്ടായിരുന്നത് അവർ സ്വതന്ത്രമായി സമീപിക്കുമ്പോൾ ഈ പദം നിലനിന്നിരുന്നു എന്നാൽ അതേ നിരക്കിൽ അവർ അതേ നിരക്കിൽ സമീപിക്കുമ്പോൾ അത് ശരിയായിരുന്നു അതിനാൽ അവർ ഒരേ നിരക്കിൽ സമീപിക്കുമ്പോൾ പരിധി നിലവിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് വളരെയധികം വർദ്ധിക്കുന്നില്ല അതിനാൽ ഇത് ഈ പോലെ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ഈ രൂപത്തിലാണെങ്കിൽ ഇത് നിലവിലുണ്ട് ഇതിനെ ഇന്റഗ്രലിന്റെ കോഷി തത്വം മൂല്യം എന്ന് വിളിക്കുന്നു അതിനാൽ അതിന്റെ നൊട്ടേഷൻ PV അതിനാൽ ചുരുക്കത്തിൽ എനിക്ക് ഇവിടെ a മുതൽ b വരെയുള്ള ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഏകത്വം ഉണ്ടായിരുന്നു എന്താണ് സംഭവിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് പോകുന്നു ഞാൻ സിംഗുലാരിറ്റി അടിക്കുന്നു അതിനാൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ ഇത് എഴുതാം അതിനാൽ ഞാൻ ഇതിനെ ഈ അവിഭാജ്യ മൂല്യം എന്ന് വിളിക്കാൻ പോകുന്നു ഞാൻ എന്താണ് ഉപേക്ഷിച്ചത് ഞാൻ ഇതിൽ ഒരു സെഗ്മെന്റ് വിട്ടു അതിനാൽ ഈ സെഗ്മെന്റുകൾക്ക് ഞാൻ നഷ്ടപരിഹാരം നൽകണം കാരണം ഇന്റഗ്രൽ a മുതൽ b വരെയാണ് അതിനാൽ ചാടിക്കയറി എങ്ങനെയെങ്കിലും ഏകത്വം ഒഴിവാക്കണം എന്നതാണ് അതിനുള്ള വഴി അതിന് ചുറ്റും ചാടുമ്പോൾ അത് വിളിക്കപ്പെടുന്നതായി മാറുന്നു ഏകത്വത്തിലേക്ക് പോകാത്ത ചില കോണ്ടൂരുകൾക്ക് അവിഭാജ്യമായി എനിക്ക് എഴുതാം അങ്ങനെയാണ് ഞാൻ ഇത് എഴുതുന്നത് അതിനാൽ ഇതിനെ അവശിഷ്ടം എന്നും വിളിക്കുന്നു അതാണ് മൊത്തം അവിഭാജ്യഘടകം ഇപ്പോൾ ഇവിടെ വീണ്ടും അൽപ്പം അവ്യക്തതയുണ്ട് ഈ രൂപഭേദം ഞാൻ എങ്ങനെ തിരഞ്ഞെടുക്കും എനിക്ക് ഇത് ഇതുപോലെ തിരഞ്ഞെടുക്കാമായിരുന്നോ അതെ എനിക്ക് അത് ശരിയായി തിരഞ്ഞെടുക്കാമായിരുന്നു അതിനാൽ അവ്യക്തതയുടെ ആ ഭാഗം നിലനിൽക്കുന്നത് അവശിഷ്ടത്തെ എങ്ങനെ വിലയിരുത്താം എന്നതിനെ പ്രശ്നത്തിന്റെ ഭൌതികശാസ്ത്രം എന്നോട് പറയും ഏത് കോണ്ടൂർ അനുവദിച്ചിരിക്കുന്നു ഏത് കോണ്ടൂർ അനുവദനീയമല്ല അതിനാൽ നിങ്ങൾ അഭിമുഖീകരിച്ച പുതിയ ഒരു കാര്യമാണിത് നിങ്ങൾ ഒരു സിംഗുലാരിറ്റി അടിക്കുമ്പോൾ നിങ്ങൾ രണ്ട് ഭാഗങ്ങളായി ഇന്റഗ്രൽ ചെയ്യണം ആദ്യഭാഗം സിംഗുലാരിറ്റി ഇല്ലാത്തതാണ് അതിനെ തത്വ മൂല്യം എന്ന് വിളിക്കുന്നു അവിഭാജ്യ വലത്തിന്റെ കൌച്ചി പ്രധാന മൂല്യം അതിനാൽ അതിന്റെ നൊട്ടേഷൻ ഞാൻ ഇവിടെ എഴുതിയത് പോലെയാണ് നിങ്ങൾക്ക് എന്ന് എഴുതാം അതിനാൽ നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇതിന് അൽപ്പം ആശയക്കുഴപ്പമുണ്ടാക്കുന്ന മറ്റൊരു ചുരുക്കെഴുത്ത് ഇതുപോലെ പോകുന്നു അവിഭാജ്യ ചിഹ്നത്തിന് കുറുകെ ഒരു കട്ട് ഉണ്ട് അത് സിംഗിൾ സിംഗുലാരിറ്റി രക്ഷപ്പെട്ടുവെന്ന് പറയുന്നു അതുകൊണ്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് പ്രധാന മൂല്യം ഇവിടെയുള്ള ആദ്യ ഭാഗമാണ് രണ്ടാം ഭാഗം അവശിഷ്ട പദമായിരിക്കും അത് ശരി എന്ന് വിലയിരുത്താൻ നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കും അതിനാൽ മുന്നോട്ട് പോയി ഇന്റഗ്രൽ ∇g nˆ കണക്കാക്കണം നമുക്ക് ഈ ഇന്റഗ്രൽ കണക്കാക്കാം ശരി സംയോജനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഏകീകരണ കോണ്ടൂർ ഇപ്പോൾ എങ്ങനെ പരിഷ്കരിക്കാമെന്ന് കാണേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇതെങ്ങനെയെങ്കിലും എനിക്ക് ഏകത്വത്തിൽ നിന്ന് രക്ഷപ്പെടണം അതിനാൽ ഞാൻ നോക്കുമ്പോൾ ആദ്യത്തെ സമവാക്യം ഇവിടെ പറയാം ഞാൻ അത് 2 തവണ വരയ്ക്കും അതിനാൽ ഇത് എന്റെ ആദ്യത്തെ സംയോജനത്തിന്റെ ആദ്യ വോള്യം ശരിയാണ് ഇത് എന്റെ V1 ആണ് ഇത് എന്റെ V2 ആണ് ആദ്യ സമവാക്യത്തിന് r′ നിർബന്ധിതമായി V2 ൽ ആയിരിക്കണം അതിനാൽ ഇത് എന്റെ r′ ആണെന്ന് നമുക്ക് പറയാം ഈ സെഗ്മെന്റാകാൻ ഞാൻ ഇപ്പോൾ r′ നിശ്ചയിച്ചിരിക്കുന്നു സെഗ്മെന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് r′ നിശ്ചയിച്ചിരിക്കുന്നു ഞാൻ എന്റെ ഒരു സമവാക്യം എഴുതാൻ ശ്രമിക്കുകയാണ് എന്റെ കോണ്ടൂർ സംയോജനമായ ഈ മുഴുവൻ അതിർത്തിയിലും r പോകുന്നു ഇപ്പോൾ അത് ഈ സെഗ്മെന്റിലേക്ക് വരുന്നു അതിനാൽ അത് ഇവിടെ വളരെ നന്നായി പ്രവേശിക്കുന്നു ഇപ്പോൾ കോണ്ടൂർ ഏത് രീതിയിൽ രൂപഭേദം വരുത്തണം എന്ന ഏകത്വത്തിൽ എത്തുന്നു വിദ്യാർത്ഥി മുകളിൽ മുകളിലോ താഴെയോ വിദ്യാർത്ഥി താഴെ അത് താഴെ പോകണം അതിനാൽ ഇത് ഇതുപോലെ പോകണം അതുകൊണ്ടാണ് ഞാൻ S− എന്ന വാക്ക് ഉപയോഗിക്കുന്നത് S− എന്നോട് പറയുന്നത് ഞാൻ ശരിയാണ് അതിനാൽ r′ എവിടെയായിരുന്നാലും ലൊക്കേഷൻ എവിടെയാണെങ്കിലും ഞാൻ അതിന് ചുറ്റും വളയണം അത് നമ്മുടെ തന്ത്രവും അതിനുള്ളതുമാണ് അതിനാൽ ഇത് സമവാക്യം 1 നും സമവാക്യം 2 നും ഞാൻ ഇത് പ്രത്യേകം വരയ്ക്കുന്നു അതിനാൽ ആശയക്കുഴപ്പമില്ല വീണ്ടും ഇതാണ് എന്റെ സെഗ്മെന്റ് ഞാൻ എന്റെ സംയോജനത്തെക്കുറിച്ച് പോകുന്നു രണ്ടാമത്തെ സമവാക്യത്തിൽ ഇത് എന്റെ r′ ഇപ്പോൾ r′ നിർബന്ധമാണ് വിദ്യാർത്ഥി V 1 V 1 അതിനാൽ എനിക്ക് ഈ ഏകീകരണം എങ്ങനെ ചെയ്യാൻ കഴിയും എന്നതാണ് സംഭവിക്കുക അത് നമ്മൾ പരിഹരിക്കുന്ന തന്ത്രമായിരിക്കും അതിനാൽ നമ്മൾ അത് കൊണ്ടുവരും ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കും